തന്നിരിക്കുന്നത് ലീനിയർ സർക്യൂട്ടുകളാണെന്നും എക്സ്പോണൻഷ്യൽ st യുടെ സൊല്യൂഷനും അറിയാമെങ്കിൽ ഒരു സൈനസോയ്ഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു ലീനിയർ സർക്യൂട്ടിന്റെ ഫോർസ്ഡ് റെസ്പോൺസ് കണ്ടെത്തുന്നതിന് ഇതിലും ഗംഭീര മാർഗ്ഗമുണ്ട് ഞാൻ ഇവിടെ ഒരു RC ഫിൽറ്റർ കാണിക്കും ഇത് ഏത് ഓർഡറിന്റെ ലീനിയർ സിസ്റ്റത്തിനും ബാധകമാണ് പക്ഷേ ഇവിടെ ഒരു പൊതു സംവിധാനത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ലീനിയർ സിസ്റ്റത്തിൽ Vpcosω പ്രയോഗിക്കുക്കയാണെന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് Vc1 ലഭിക്കും നമ്മൾ ഇവിടെ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളു Vc1 എന്നത് സ്റ്റെഡി സ്റ്റേറ്റും Vc2 എന്നത് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസും ആണ് Vc1 എന്നത് V p cos ω t ϕ യുടെ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസും Vc2 എന്നത് V p × sin ω t ϕ സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥയാണ് ഇത് സൂപ്പർ പൊസിഷൻ പിന്തുടരുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഞാൻ ഇപ്പോൾ എന്തുചെയ്യണം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് ഈ കുറച്ച് നമ്പറും ഈ മറ്റേതെങ്കിലും സംഖ്യയും കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് പറയട്ടെ അതായിരിക്കും ഈ സംഖ്യയുടെ വെയ്റ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ആൽഫയും ബീറ്റയും ഈ RC ഫിൽറ്ററിന്റെ ഇൻപുട്ടുകൾ ആണെങ്കിൽ അവയുടെ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് 𝛂 × V c1 𝜷 × V c2 ഇത് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കുമ്പോൾ ലഭിക്കും ഇപ്പോൾ ഇത് 1 ആണെന്നും ഇത് j ആണെന്നും പറയട്ടെ നമുക്ക് ഇവിടെ Vp cos ωt ϕ j × Vp sine ωt ϕ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ jVp വോൾട്ടേജായി ലഭിക്കുമെന്നതിനെക്കുറിച്ച് ഓർത്തു വിഷമിക്കേണ്ട ഇവിടെ നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥ ഇൻപുട്ട് എന്താണ് ഇത് Vp എക്സ്പോണൻഷ്യൽ jωt ϕ ഇൻപുട്ട് പ്രയോഗിക്കുന്നതിന് തുല്യമാണ് ഈ പ്രത്യേക സർക്യൂട്ടിനുള്ളVp എക്സ്പോണൻഷ്യൽ jωt ϕ ന്റെ സ്റ്റെഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എന്താണ് എനിക്ക് രണ്ട് ലീനിയർ സിസ്റ്റങ്ങളുണ്ട് ആദ്യത്തേതിന് ഒരു ഇൻപുട്ട് ഉണ്ട് Vp cos ωt ϕ രണ്ടാമത്തേതിന് ഒരു ഇൻപുട്ട് ഉണ്ട് Vp sin ωt ϕ ആദ്യത്തേതിന്റെ റെസ്പോൺസ് VC1 ആണ് രണ്ടാമത്തേതിന്റെ റെസ്പോൺസ് Vc2 അതിനാൽ ഒരു മൂന്നാമത്തെ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കാദ്യം കുറച്ചു ചിത്രങ്ങൾ പരിശോധിക്കാം V c1 ന്റെ റെസ്പോൺസ് V p cos ω t ϕ V c2 V p sin ω t ϕ എന്നും ആണെങ്കിൽ V p × 𝛂 cos ωt ϕ 𝜷 sin ω t ϕ ആയിരിക്കും ഇതിന്റെ സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് 𝛂 × Vc1 𝜷 Vc2 ആയിരിക്കും ഇത് ഏത് ആൽഫയ്ക്കും 𝛂 ബീറ്റയ്ക്കും 𝜷 ബാധകമായിരിക്കും അതിനാൽ നമ്മൾ ഇവിടെ ആൽഫ 𝛂 1 ന് തുല്യവും ബീറ്റാ 𝜷 j ക്ക് തുല്യവുമായി എടുക്കുന്നു അത് കൊണ്ട് Vp എക്സ്പോണൻഷ്യൽ jωtϕ യുടെ റെസ്പോൺസ് V c1 j × V c2 ആയിരിക്കും അപ്പോൾ R സർക്യൂട്ടിനു Vp എക്സ്പോണൻഷ്യൽ jωtϕ യോടുള്ള റെസ്പോൺസ് എന്തായിരിക്കും Vp എക്സ്പോണൻഷ്യൽ jωtϕ യുടെ റെസ്പോൺസ് എന്താണ് എന്താണ് സ്റ്റെഡി സ്റ്റേറ്റ് റെസ്പോൺസ് Vp 1 SCRഎക്സ്പോണൻഷ്യൽ t അതിനാൽ ഇത് മറ്റൊന്നുമല്ല Vp എക്സ്പോണൻഷ്യൽ j ϕ എക്സ്പോണൻഷ്യൽ jωt അതിനാൽ ഇതിനുള്ള സൊല്യൂഷൻ ആണ് Vp എക്സ്പോണൻഷ്യൽ jϕ 1 jω CR എക്സ്പോണൻഷ്യൽ jωt എനിക്ക് ϕ തിരികെ അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ Vp എക്സ്പോണൻഷ്യൽ j ω t ϕ 1 j ω CR ആയി തീരും എനിക്ക് ഇതിനകം അറിയാവുന്ന ഉത്തരം അതാണ് ഇവിടെ ഞാൻ സൂപ്പർ പൊസിഷൻ ചെയ്തു ഇൻപുട്ട് Vp എക്സ്പോണൻഷ്യൽ jωt ϕ ആയി മാറുകയും ഇതിനകം അറിയാവുന്ന ഉത്തരം ഇതാണ് ഡിഫറൻഷ്യൽ സമവാക്യം വെവ്വേറെ എഴുതുകയാണെങ്കിൽ ഇത് R C dVc 1 dt V c1 Vp cos ω t ϕ ഉം R CdVc 2 dt Vc2 V p sin ω t ϕ ഉം ആണ് ഇവിടെയുള്ള ഘടകങ്ങൾ എല്ലാം വാസ്തവികം ആണ് ഇത് സാങ്കല്പികം ആണെങ്കിൽ നമുക്കതിനനുസരിച്ചു പരിഹരിക്കാൻ സാധിക്കും മൈനസ് 1 ന്റെ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് ലഭിക്കുന്ന ഒരേയൊരു സ്ഥലം നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുന്നിടത്താണ് നമ്മൾ ഇത് 1 കൊണ്ട് ഗുണിക്കുകയും ഇത് j കൊണ്ട് ഗുണിക്കുകയുംതുടർന്ന് അത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ j ദൃശ്യമാകുന്ന ഒരേയൊരു സ്ഥലം ഇത് ഒന്നായി വർദ്ധിക്കുമ്പോൾ മാത്രമാണ് കാരണം നിങ്ങൾ Vp എക്സ്പോണൻഷ്യൽ j ω t ϕ എന്നതിനോടുള്ള റെസ്പോൺസ് കണക്കാക്കുമ്പോൾ യഥാർത്ഥ ഭാഗം ഇവിടെയുള്ള റെസ്പോൺസ് ആണ് ഇവിടെ പ്രധാന കാര്യം ഇതാണ് ലീനിയർ സിസ്റ്റം അതിന്റെ ഡിഫറൻഷ്യൽ സമവാക്യത്തിന് യഥാർത്ഥ ഫാക്ടർസ് മാത്രമേയുള്ളൂ തീർച്ചയായും ഏത് സർക്യൂട്ടും അത് പിന്തുടരും കാരണം ഘടകങ്ങളെല്ലാം വാസ്തവികം ആണ് ഇത് ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും അതായത് എനിക്ക് ഇവിടെ ഒരു j ഇടാം അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം പക്ഷേ വാസ്തവിക ഭാഗം അവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം സിസ്റ്റത്തിനുള്ളിലെ j കാരണം നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് ഭാഗവും നേടാനും കഴിയും അതിനാൽ ഇതാണ് വാസ്തവിക ഭാഗം ഇത് കോംപ്ലക്സ് ഭാഗം ആണ് അതിനാൽ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ നേടുന്നതിനുള്ള ഒരു മാർഗ്ഗം മാത്രമാണിത് കോംപ്ലക്സ് എക്സ്പോണൻഷ്യലിനുള്ള സൊല്യൂഷൻസ് ലളിതമാണ് അൾജിബ്രൈക് ആയി സൈനസോയ്ഡലിനുള്ള പരിഹാരങ്ങളുമായി താരതമ്യം ചെയ്യുന്നു അതേ പരിഹാരമാർഗം തീർച്ചയായും ഉണ്ട് പക്ഷേ ഫോർമുലകൾ കുറച്ചുകൂടി കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ 𝛂 cos ωt 𝜷sine ωt ഉണ്ടായിരുന്നു തുടർന്ന് എനിക്ക് അതിൽ നിന്ന് കോൺസ്റ്റന്റ്സും മറ്റും കണ്ടെത്തേണ്ടിവന്നു ഇത് ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഇത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേ ഉത്തരം ലഭിക്കും അതിനാൽ മൂന്ന് രീതികളും പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് ശക്തമായി അഭ്യർത്ഥിക്കുന്നു ഇത് ഒന്നാമതായി വളരെ ലളിതമായ ഒരു സർക്യൂട്ടാണ് അതിനാൽ നിങ്ങൾ 𝛂 cos 𝜷sine ആയി ഒരു സൊല്യൂഷൻ വയ്ക്കുക കോൺസ്റ്റന്റുകൾ കണ്ടെത്തുക കോസിനെ എക്സ്പോണൻഷ്യൽ jω എക്സ്പോണൻഷ്യൽ jω ആയി വിഘടിപ്പിക്കുക സൊല്യൂഷൻ കണ്ടെത്തുക എന്താണ് Vc1 എന്താണ് ഫോർസ്ഡ് റെസ്പോൺസ് ഇതിന്റെ വാസ്തവിക ഭാഗം എന്താണ് ഇവിടുത്തെ സോഴ്സ് R C ആണെങ്കിൽ സൊല്യൂഷൻ V p 1 j ω c R എക്സ്പോണൻഷ്യൽ jω t ϕ ആണ് ഇത് ഫോർസ്ഡ് റെസ്പോൺസ് ആണ് നമ്മൾ ഇവിടെ ഫോർസ്ഡ് റെസ്പോൺസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് Vp cos ωt ϕ സോഴ്സ് ആയി ഉണ്ടെങ്കിൽ റെസ്പോൺസ് ഇതിന്റെ വാസ്തവിക ഭാഗം ആയിരിക്കും അപ്പോൾ ഇതിന്റെ വാസ്തവിക ഭാഗം എന്താണ് ഇതിന്റെ വാസ്തവികം ഭാഗവും അത് ചെയ്യാനുള്ള പല വഴികളും എന്തൊക്കെയാണ് കോംപ്ലക്സ് സംഖ്യകൾ ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകൾ ഇതിനകം നമ്മൾ കടന്നു പോയിട്ടുണ്ട് കോംപ്ലക്സ് സംഖ്യകളുടെ രണ്ട് രൂപങ്ങളുണ്ട് ഇത് ഒരു റെക്ടാംഗുലർ ഫോം അല്ല ഇവിടെ അവലോകനം ചെയ്യുക കോംപ്ലക്സ് സംഖ്യയുടെ x y കോർഡിനേറ്റുകൾ അല്ലെങ്കിൽ പോളാർ രൂപത്തിന്റെ വ്യാപ്തിയും കോണും ആണ് ഇപ്പോൾ രണ്ട് പ്രാതിനിധ്യങ്ങളും ഉപയോഗപ്രദമാണെന്ന് വ്യക്തമായി പറയുന്നു കോംപ്ലക്സ് സംഖ്യകൾ ചേർക്കുന്നതിന് ഇത് കൂടുതൽ സൌകര്യപ്രദമാണ് കോംപ്ലക്സ് സംഖ്യകൾ ഗുണിക്കുന്നതിന് ഇത് കൂടുതൽ സൌകര്യപ്രദമാണ് അതിനാൽ ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് 11 j ω c R എന്താണ് ഇതിന്റെ വ്യാപ്തി വിദ്യാർത്ഥി വ്യാപ്തി വിദ്യാർത്ഥി അത് ആംപ്ലിറ്റ്യൂഡാണ് ആർഗ്യുമെന്റ് എന്നാൽ tan 1 ω CR ആണ് അതിന് നിരവധി മാർഗങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ യഥാർത്ഥ ഡിനോമിനേറ്ററും തുടർന്ന് ഒരു കോംപ്ലക്സ് സംഖ്യയും മറ്റും ലഭിക്കും അതിനാൽ അവസാനമായി ഇതിനോടുള്ള റെസ്പോൺസ് Vp1ωcR212 cos of ω t ϕ tan 1 ω c R ഉം ആണ് അതിനാൽ നിങ്ങൾ ഒരു ലീനിയർ സിസ്റ്റത്തിലേക്ക് ഒരു സൈനസോയ്ഡൽ പ്രയോഗിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഒരു സിനോസോയ്ഡൽ വ്യാപ്തി ആഴത്തിൽ മാറുകയും മുഖം മാറുകയും ചെയ്യും സർക്യൂട്ടിനെ ആശ്രയിച്ച് വ്യാപ്തി എത്രമാത്രം മാറും അതിനാൽ ഇത് വ്യാപ്തി മാറ്റമാണ് അതിനാൽ അത് വ്യക്തമായും സർക്യൂട്ടിനെയും ഫ്രീക്വൻസിയെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇൻഡക്ടറുകളോ കപ്പാസിറ്ററുകളോ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഫ്രീക്വൻസികളുമുള്ള സർക്യൂട്ടുകളായ ഫ്രീക്വൻസി സെലക്ടീവ് സർക്യൂട്ടുകൾ ലഭിക്കും ω വളരെ വലുതാണെന്നും അതിനാൽ സർക്യുട്ടിന്റെ ഔട്ട്പുട്ട് ന്റെ ആംപ്ലിറ്യുട് വളരെ ചെറുതാണെങ്കിൽ ഇൻപുട്ടിന് 1 RC ആയി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ അത് വിപരീത അനുപാതമാണ് ωഅതിനാൽ പ്രതികരണം ഇതിന്റെ യഥാർത്ഥ ഭാഗമാണ് കോസ് ആംപ്ലിറ്റ്യൂഡ് Vp സ്ക്വയർ റൂട്ട് 1 ω സ്ക്വയർ c സ്ക്വയർ R സ്ക്വയർ അതിൻറെ ആർഗ്യുമെന്റ് ω t ϕ മൈനസ് ടാൻ ഇൻവേഴ്സ് ω c R ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു ലീനിയർ സിസ്റ്റത്തിലേക്ക് ഒരു സൈനസോയ്ഡൽ പ്രയോഗിക്കുക ആണെങ്കിൽ ശക്തിയുടെ പ്രതികരണം അതേ ഫ്രീക്വൻസിയുടെ ഒരു സിനോസോയ്ഡൽ ആയിരിക്കും ലീനിയർ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഫ്രീക്വൻസി സൃഷ്ടിക്കാൻ കഴിയില്ല നിങ്ങൾ cos ω t പ്രയോഗിച്ചു നിങ്ങൾക്ക് cos ωt മാത്രമേ ലഭിക്കൂ വ്യാപ്തി മാറിക്കൊണ്ടിരിക്കുന്നു അത്രമാത്രം പക്ഷേ ലീനിയർ സിസ്റ്റങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സ്വീകാര്യതയാണ് ഇത് വിശകലനത്തിനും അളവെടുപ്പിനും പരീക്ഷണത്തിനും എല്ലാം ഉപയോഗപ്രദമാകും